ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നുഅടുത്തത് സമാന്തര ആർഎൽസി സർക്യൂട്ട് ഓരോന്നും ഇവിടെ വിശദമാകിട്ടുണ്ട് നിങ്ങൾക്ക് അത് സഹായകരമാകും കാര്യങ്ങൾ വളരെ ലളിതമാണ് അത് വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് എടുത്തതാണ് പുസ്തകങ്ങളുടെ പട്ടികയിൽ അത് കൊടുത്തിട്ടുണ്ട് ചിലത് എന്റെ ക്ലാസ്സ് നോട്ടുകളിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ ധാരണയ്ക്കായി എന്റെ സ്വന്തം നിരീക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് നിങ്ങൾ പിന്തുടരേണ്ട ഏതൊരു നല്ല പുസ്തകവും ഈ വിഷയത്തിൽ ഞാൻ പരാമർശിച്ച 4 5 പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കും ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ ലൈബ്രറിയിൽ ലഭ്യമാണ് ഇതൊരു ലളിതമായ സമാന്തര RLC സർക്യൂട്ട് ആണ് വോൾട്ടേജ് ഉറവിടം V നൽകിയിരിക്കുന്നു R L C ഇവയെല്ലാം സമാന്തരമാണ് അതിനാൽ ഈ R യിലൂടെ ഒഴുകുന്നത് IR ആണ് L വാഴി IL C യിലൂടെ IC ഒരു സമാന്തര സർക്യൂട്ട് ആണ് അതിനാൽ നമുക്ക് IR IL IC I എന്നിവ നോക്കാം ഈ മൊത്തം കറന്റ് I I IR IL IC KCL ഇവിടെ പ്രയോഗിച്ചാൽ IR ഞങ്ങൾ ഈ V∟0o എടുക്കുന്നു ഇത് റഫറൻസ് വോൾട്ടേജ് നൽകിയിരിക്കുന്നു സമാന്തര സർക്യൂട്ട് V ∟0R ഇത് IR ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ jXLആണ് XL L ω എടുക്കും ഇത് XL L ω ആണ് അതിനാൽ ഇത് കപ്പാസിറ്ററിന് jXC ആണ് XC 1ω C ഈ രീതിയിൽ ഞങ്ങൾ എടുക്കും സാധാരണയായി 1j ω C ഇതാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും j കൊണ്ട് ഗുണിച്ചാൽ അത് jj 2 j 2 1 ആയിരിക്കും അതിനാൽ jXC jω C അതിനാൽ അതുകൊണ്ടാണ് ഞങ്ങൾ എഴുതുന്നത് jXC XC 1ω C ഇത് അതായത് V ∟ 0 jXL V ∟ 0 XL ∟90 o അതിനാൽ VXL ∟ 900 നമ്മൾ ശുദ്ധമായ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറന്റ് ലാഗ് ചെയ്യുന്നതായി കണ്ടു അതുപോലെ കപ്പാസിറ്ററിന് കറന്റ് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു V ∟0 jXC അതിനാൽ ഇത് V ∟ 0 XC ∟ 90 o ആണ് കാരണം j j എന്നത് 90o ആണ് ഇവിടെ j കാരണം അത് 90o ആയതിനാൽ V∟90o XC ആയിരിക്കും അതിനാൽ I IR IL IC അതിനാൽ IR i R ∟ 0 കാരണം ഇത് VR ∟ 0 ആണ് അതിനാൽ iR VR I L i L ∟ 90 o iL VXL ആണ് അതുപോലെ IC iC ∟ 90 o iC VXC ആണ് അതിനാൽ ഇപ്പോൾ മൊത്തം കറന്റ് ചേർക്കുകയാണെങ്കിൽ I iR ∟ 0 iL ∟ 90 o iL ∟90 o ആയിരിക്കും അതിനാൽ അതിന്റെ വ്യാപ്തി √ iR2 iR ഉം ആയിരിക്കും ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ നിങ്ങൾക്ക് കറന്റ് I I മാഗ്നിറ്റുഡ് ∟ θ ആയിരിക്കും θ tan 1 iR എന്നിവ എഴുതാൻ കഴിയു൦ Θ നെഗറ്റീവ് ആണെങ്കിൽ കറന്റ് വിതരണ വോൾട്ടേജിൽ നിന്നും ലാഗ് ചെയ്യുന്നു θ നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഫലമാണെങ്കിൽ സപ്ലൈ വോൾട്ടേജിനെ കറന്റ് ലീഡ് ചെയ്യുന്നു ഇതാണ് പൊതുവെയുള്ള സർക്യൂട്ട് ഇത് Z1 Z2 Z3 ആണെന്ന് കരുതുക ഇത് ശുദ്ധമായ R അല്ല ഇത് ചില ഇമ്പേഡൻസ് ആകാം Z1 Z2 Z3 അതിനാൽ I1 VZ1 സമാന്തര സർക്യൂട്ട് ആയതിനാൽ Y1 V ആകും I 2 VZ2 ആയിരിക്കും അത് Y2 V ആകും I3 VZ3 ആയിരിക്കും അത് Y3 V അതിനാൽ I I1 I 2 I 3 അതിനാൽ ഇത് VZ1 VZ2 VZ3 ആകും അതിനാൽ I V അല്ലെങ്കിൽ I YV അല്ലെങ്കിൽ Y ഇംപെഡൻസിന്റെ റേസിപ്രോക്കൽ എന്ന് വിളിക്കുന്നു അതിനാൽ സമാന്തര ശാഖകൾക്കായി അഡ്മിറ്റാൻസ് ചേർക്കുന്നു ഇപ്പോൾ പാരലൽ എക്വിവലെന്റിലേക്ക് പോകാം ഒരു ലളിതമായ ഉദാഹരണം ചെയ്യും അടുത്തത് ഒരു സീരീസ് ഇമ്പേഡെൻസിന്റെ പാരലൽ എക്വിവാലെന്റ ആണ് ഉദാഹരണത്തിന് ഇത് എന്റെ സീരീസ് ഇംപെഡൻസ് ഈ ശാഖ RP XP എന്നിവയാണ് RP XP എന്നിവ Rs Xs എന്നി ടെർമുകളിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇത് ഒരു സീരീസ് ഇംപഡൻസിന്റെ പാരലൽ എക്വിവാലെന്റ ആണ് അതിനാൽ ഇത് സീരീസ് ആണ് നമുക്ക് വേണ്ടത് സമാന്തര എക്വിവാലെന്റ ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് Y1Z അറിയാം അതിനാൽ 1Z എന്നാൽ C1RSj XS അർത്ഥമാക്കുന്നത് ഇത് നമ്മൾ Y S എന്ന് നിർവ്വചിക്കുന്നു ഇത് പാരലൽ എക്വിവാലെന്റ ആയ 1RP 1jXP ആണ് കാരണം ഇത് ഇൻഡക്റ്റീവ് ആയതിനാൽ 1 jXP ഇത് Yp ന് തുല്യമാണ് അല്ലെങ്കിൽ ഈ Rs jXs ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ 1Rp j 1Xpആണ് ഇത് ഈ പദം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും j കൊണ്ട് ഗുണിക്കുക അതിനാൽ 1Rp jXpg j b എന്ന് പറയുക gകണ്ടക്ടൻസ് വേർതിരിക്കുക 1RpRs Rs 2 Xs 2 അതുപോലെ 1XpXsRs 2 Xs 2 ഇത് 1Xp ആണ് അല്ലെങ്കിൽ RpRs 2 Xs 2Rs XpRs 2 Xs 2 Xs അതായത് സീരീസ് ഇംപെഡൻസ് എന്ന് വിളിക്കുന്നു സീരീസ് സർക്യൂട്ടിനുള്ള VI Z s എന്ന് നമുക്കറിയാം അത് Rs jXs ആണ് അതിനാൽ VIRs j I Xs അതിനാൽ V റഫറൻസ് ആണ് ഇത് കറന്റ് I ആണ് ഇതാണ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് ഞാൻ പറയുന്നു അതിനാൽ കറന്റ് I ആംഗിൾ θ കൊണ്ട് ലാഗ് ചെയ്യുന്നു അതിനാൽ ഇത് IRs ഇത് IXs ആണ് ഈ ആംഗിൾ 90 o ആണ് നീല മഷി ഉപയോഗിച്ച് വീണ്ടും അടയാളപ്പെടുത്തുന്നില്ല എന്നാൽ ഇത് 90o ആണ് ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സമാനമായി പാരലൽ എക്വിവാലെന്റ നു IVYp കാരണം അത് അഡ്മിറ്റൻസ് ആണ് അതുകൊണ്ടാണ് IV 1Rp j 1Xp g jb അതിനാൽ IV g jVb ആ സാഹചര്യത്തിലും V എന്നത് ആ റഫറൻസ് ആണ് കറന്റ് എന്തായാലും θ കൊണ്ട് ലാഗിംഗ് ആണ് അതിനാൽ ഇത് V g ആണ് ഈ ഭാഗം V g ആണ് ഇത് ഇമാജിൻറി ഭാഗം Vb ആണ് ഇത് Vb ആണ് അതിനാൽ അഡ്മിറ്റൻസും ഇംപെഡൻസും ഈ ഫിഗർ ഡയഗ്രം പറയുന്ന പോലെ IRs jIXS അതായത് V ആണ് അഡ്മിറ്റൻസ് പരിഗണിക്കുമ്പോൾ V g jVb രണ്ടും കാണിച്ചിരിക്കുന്നു ഇപ്പോൾ സീരീസ് പാരലൽ സർക്യൂട്ട് ഈ ഉദാഹരണം എടുക്കുക അത് ഒരു സീരീസ് പാരലൽ സർക്യൂട്ട് ആണ് അതിനാൽ ഈ സർക്യൂട്ടലെ കറന്റ് I പോയിന്റ് a ഇത് b ഇതാണ് c ഇത് d ഈ പോയിന്റ് e ഇത് f ഈ പോയിന്റ് g എന്നിവയിൽ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതൊരു പാരലൽ ഭാഗമാണ് ഇത് സമാന്തര ഭാഗമാണ് അതിനാൽ എല്ലായിടത്തും a b c d e f g എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമതായി ഈ 2 സമാന്തരമാണ് 4 j 3 6 j 8 എന്നിവ സമാന്തരമാണ് അവരുടെ സീരീസ് എക്വിവാലെന്റ ആദ്യം ഉണ്ടാക്കുക അതോടൊപ്പം ഇതു ചേർക്കുക Rs ശേഷം VZ I ലഭിക്കും ഇതാണ് fg അതിനാൽ ഈ രീതിയിൽ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നു IefI ഇതാണ് Zfg ഇത് ഇതാണ് f പോയിന്റ് ഇതാണ് g പോയിന്റ് അതിനാൽ ഈ 4 j 3 ഉം 6 j 8 ഉം സമാന്തരമാണ് അതിന്റെ എക്വിവാലെന്റ കണ്ടെത്തുക അതിനാൽ വീണ്ടും വീണ്ടും ഞാൻ സർക്യൂട്ടിലേക്ക് വരില്ല പക്ഷേ എല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇതാണ് എന്റെ ഈ ഭാഗത്തിന്റെ ഇംപെഡൻസ് ആയിരിക്കും വീണ്ടും വീണ്ടും ഞാൻ സർക്യൂട്ടിലേക്ക് വരില്ല അതിനാൽ I ef Iab Icd പവർപവർ ഫാക്ടർ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ Y ab 1Z ab 16 j 8 ആണ്ഇത് എപ്പോൾ ചെയ്യുമ്പോളും ആദ്യം സർക്യൂട്ട് വരയ്ക്കുക ഇത് ഈ മൂല്യം വരുന്നു അതുപോലെ Ycd ചെയ്യുക അത് 0 16 j 0 12 mho ആയിരിക്കും അതിനാൽ Yfg അഡ്മിറ്റൻസ് Yab Ycd ഇത്രയും വരുന്നുണ്ട് ഇപ്പോൾ Zfg1Yfg അതിനാൽ ഇത് 4 4 j 0 8 Ω വരുന്നു അതിനാൽ ഇപ്പോൾ Zeg കാണാൻ Z ef Zfg ചേർക്കുക ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആദ്യം ഒരു സമാന്തര സർക്യൂട്ടിന്റെ അഡ്മിറ്റാൻസ് കണക്കാക്കുന്നത് കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കുന്നു തുടർന്ന് നമ്മൾ Zfg 1Yfg കണ്ടെത്തുകയാണ് അതിനാൽ ഇത് ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ Zeg മൊത്തം ഇംപെഡൻസ് Z ef ഇത്രയും ആയിരിക്കും Z ef സർക്യൂട്ട്ൽ നൽകിയിരിക്കുന്നു 1 6 j 7 2 ഇത് നിങ്ങൾ ചേർക്കുന്നു അതിനാൽ ഇത് 6 j 8 Ω വരുന്നു അതിനാൽ കറന്റ് I sVZeg അതിനാൽ ഇത് 10 ∟ 53 2o ആമ്പിയർ വരുന്നു അതിനാൽ പവർ ഫാക്ടർcos θ അതിനാൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ 53 2 o ലാഗിംഗ് ആണ് അതിനാൽ ഇത് 0 60 ഉം PVI cos θ ഉം ആണ് അതിനാൽ 100 10 cos 53 2 o P600 വാട്ട് അതിനാൽ അടുത്തത് VefI Zef ആണ് അതിനാൽ II ef ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് Vef 6 j 8 1 6 j 7 അതിനാൽ ഇത് 73 4 o വോൾട്ട് ആണ് അതുപോലെ VfgV V ef ഇവിടെ kvl പ്രയോഗിക്കുക അപ്പോൾ Vfg ലഭിക്കും നമ്മൾ സർക്യൂട്ടിൽ kvl പ്രയോഗിക്കുന്നു അതിനാൽ ഞാൻ വീണ്ടും വീണ്ടും സർക്യൂട്ടിലേക്ക് പോകുന്നില്ല നിങ്ങൾ വരച്ച് നോക്കൂ തൽക്ഷണ ധ്രുവീകരണം മാത്രം പരിഗണിച്ച് അത് പരിഹരിക്കുക അതിനാൽ അത് 100 ∟ 0 Ω 73 ∟ 24 4 o ആയിരിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 44 8o വോൾട്ടും വരുന്നു ഇപ്പോൾ IabYab Vfg അതിനാൽ ഇത് Y ab ലഭിച്ചു Vfg ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണക്കാക്കിയത് അതിനാൽ Iab ഇതായിരിക്കും 4 3o ആമ്പിയർ അതുപോലെ Icd Vfg Ycd ആയിരിക്കും അതിനാൽ ഇത് Ycd 44 80 ലഭിക്കും ഇത് 8 7o ആമ്പിയർ വരുന്നു അതിനാൽ Pab പവർ ലോസ് Iab2 Rab അതിനാൽ ഇത് Iab24 48 2 ഉം R ab6 ഉം ആയതിനാൽ ഇത് 120 വാട്ട് ആണ് അതിനാൽ ഞാൻ വീണ്ടും സർക്യൂട്ടിലേക്ക് വന്നില്ല അത് ധാരാളം സമയം ചെലവഴിക്കും ഈ വീഡിയോ ലിങ്ക് പ്രഭാഷണത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ സർക്യൂട്ട് വരയ്ക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ദയവായി സർക്യൂട്ട് വേഗത്തിൽ വരയ്ക്കുക ഈ കണക്കുകൂട്ടലുകളിലും മറ്റ് കാര്യങ്ങളിലും എന്തെങ്കിലും പിശക് കണ്ടെത്തിയാൽ എനിക്ക് സ്വയം തിരുത്താൻ കഴിയുന്നത് എന്നെ അറിയിക്കുക ഞാൻ പല കാര്യങ്ങളുമായി പറയുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും ചെറിയ തെറ്റുകൾ വരുത്തുന്നു പക്ഷേ ഞാൻ ഉടൻ തന്നെ അത് തിരുത്തി അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെല്ലാം ഫോറത്തിൽ ഇടാം ഞാൻ ഉത്തരം നൽകും അതിനാൽ ഈ വീഡിയോ പ്രഭാഷണത്തിലേക്ക് നോക്കുമ്പോഴെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ആദ്യം സർക്യൂട്ടുകൾ വരയ്ക്കുക തുടർന്ന് എന്താണ് ചെയ്തതെന്ന് നോക്കുക അതിനാൽ ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഡയഗ്രം ഇത് V ആണ് റഫറൻസ് ആംഗിൾ 0o I ab യഥാർത്ഥത്തിൽ വോൾട്ടേജ്നെ 10 3oവഴി ലീഡ് ചെയ്യുന്നു അതിനാൽ അത് ലീഡ് ചെയ്യുന്നു മറ്റേ കറന്റിലേക്ക് വന്നാൽ Iab ആണ് ലീഡ് ചെയ്യുന്നത് നിങ്ങൾ Vfg ലേക്ക് വന്നാൽ അത് ഈ റഫറൻസ് വോൾട്ടേജിൽ V നിന്ന് പിന്നിലാണ് അതിനാൽ 42 8o അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് 42 8o ഇത് ലാഗിംഗ് ആണ് ഇത് എല്ലാ വോൾട്ടേജുകളും 44 7o ആണ് ഇപ്പോൾ PabVab Iab cos θ എന്ന പവർ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ Vab 44 7 4 48 cos o എടുത്തത് അതിനാൽ ഇത് സമാനമായി 120 വാട്ട് ആണ് ഞങ്ങൾ കണ്ടു Iab2 R ab120 watt അതിനർത്ഥം അത് പൊരുത്തപ്പെടുന്നു ഇല്ലെങ്കിൽ എവിടെയോ കണക്കുകൂട്ടൽ പിഴച്ചു എന്നാണ് അർത്ഥം അതുപോലെ P cdIcd2 R cd ഇത് 320 വാട്ട് ആണ് Pef I ef 2 R ef അങ്ങനെ ഇത് 160 വാട്ട് പുറത്തുവരുന്നു അതിനാൽ ആകെ PPef Pab P cd ഇത് 600 വാട്ട് ആണ് ഒപ്പം പവർ ഫാക്ടർ PF ab 6√ 6 2 8 2 0 6 ലീഡിംഗ് 8 ലാഗിംഗ് തുടർന്ന് ഫേസർ ഡയഗ്രം വരയ്ക്കുക ദയവായി പൂർണ്ണമായ ഫേസർ ഡയഗ്രം വരയ്ക്കുക ഞാൻ നിങ്ങൾക്കായി വരച്ചിട്ടില്ല അതിനാൽ ഈ പരിഹാര ലക്ഷ്യത്തിനായി ഞങ്ങൾ എടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ ഇതാണ് അതിനാൽ ഇപ്പോൾ മറ്റൊന്ന് ഈ പ്രശ്നമാണ് L1 ന് 0 106 ഉം C2 ന് 37 89 മൈക്രോ ഫാരഡും നൽകിയിരിക്കുന്നു C L 106 മൈക്രോ ഫാരഡ് ആണ് L 2 ഇല്ല R 3 അവിടെ 30 Ω ആണ് R L 50 Ω ആണ് ഇത് V L ആണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ I I 2 IL എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് വോൾട്ടേജ് 120 വോൾട്ട് rms ആണ് അതായത് റഫറൻസ് 120 ആംഗിൾ 0 o ഈ 60 ഹെർട്സിൽ ആവൃത്തി എടുക്കുക f60 ഹെർട്സ് എടുക്കുക ഈ പ്രശ്നം ഞങ്ങൾ സാധാരണ സർക്യൂട്ട് KCL KVL ആയി പരിഹരിക്കും രണ്ടാമത്തെ കാര്യം തെവനിൻ സിദ്ധാന്തം ഉപയോഗിച്ച് ഞങ്ങൾ ഇത് ചെയ്യും കൂടാതെ ഇവിടെ ലളിതമായി kcl kvl ഉപയോഗിക്കുന്നു ഇതെല്ലാം കണ്ടുപിടിക്കണം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചത് ഉത്തരം നൽകിയിട്ടുണ്ട് ഇതാണ് ഉത്തരങ്ങൾ എന്നാൽ ഇവിടെ ആവൃത്തി 60 ഹെർട്സ് അബദ്ധത്തിൽ 50 ഹെർട്സ് എടുക്കരുത് അപ്പോൾ ഈ ഉത്തരം വരില്ല അതിനാൽ ആവൃത്തി f 60 ഹെർട്സ് ഈ ഉത്തരങ്ങളെല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ സിംഗിൾ ഫേസ് എസി സർക്യൂട്ട് ഈ ഭാഗ൦ അവസാനിച്ചു അതിനാൽ കുറഞ്ഞത് സിംഗിൾ ഫേസ് എസി സർക്യൂട്ടെങ്കിലും അവസാനിച്ചു നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഏതെങ്കിലും പുസ്തകം എടുത്ത് ദയവായി ചെയ്യുക അതിനാൽ ഇപ്പോൾ നമ്മൾ റെസൊണൻസ് പറയാം ഇപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ V യും I യും ഫേസിൽ ആയിരിക്കും അതായത് ആ സർക്യൂട്ട് ഒരു എക്വിവാലെന്റ റെസിസ്റ്റീവ് സർക്യൂട്ട് പ്രതിരോധം മാത്രം ഉൾക്കൊള്ളുന്നു ഇത് പിന്നീട് കാണുമെന്നതിനാൽ V ഉം I ഉം ഫേസിൽ ആയിരുന്നതിനാൽ ഒരു റെസൊണന്റ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ യൂണിറ്റി ആണ് ഒരു സീരീസ് RLC സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക R j അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വരും ഇപ്പോൾ ഇത് ഒരു പൊതു കാര്യമാണ് എപ്പോഴൊക്കെ സ്വാഭാവിക ആവൃത്തി ഒരു സിസ്റ്റത്തിന്റെ ആന്ദോളനത്തിന്റെ സ്വാഭാവിക ആവൃത്തി അത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ഘടന അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് ആയിരിക്കാം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഒരു വോൾട്ടേജ് സ്രോതസ്സിന്റെ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആണെന്നു പറയാം അതിനാൽ ഒരു സിസ്റ്റത്തിന്റെ ആന്ദോളനത്തിന്റെ സ്വാഭാവിക ആവൃത്തി അത് ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആവൃത്തിയുമായി പൊരുത്തപ്പെടുമ്പോൾ 2 സിസ്റ്റം പരസ്പരം റെസൊണൻസ് സിസ്റ്റത്തിന് നല്ലതല്ല അതിനാൽ ആ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഉണ്ട്

ഒന്ന് സീരീസ് റെസൊണൻസ് കാണാം അതിനാൽ സീരീസ് സിമ്പിൾ RLC സർക്യൂട്ടിന്റെ കാര്യത്തിൽ R j ഈ രൂപത്തിൽ R jX എന്ന് പറയാം X0 ആയിരിക്കുമ്പോൾ സർക്യൂട്ട് റെസൊണൻസിലാണ് അതായത് X0 എന്നാൽ L ω 1ω C0 എന്നാൽ L ω1ω C എന്നാണ് അതായത് ω 1√ L Cω0 ഈ ω0 നെ നമ്മൾ റെസൊണൻസ് ആവൃത്തി എന്ന് വിളിക്കും അതിനാൽ ω2 pi f ആയതിനാൽ റെസൊണൻസ് ആവൃത്തി ഇപ്പോൾ നിങ്ങൾ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്റെ ഇംപഡൻസ് ആണെന്ന് കരുതുക ഇത് എന്റെ ഇംപഡൻസണെങ്കിൽ ഞങ്ങൾ അത് പ്ലോട്ട് ചെയ്യുകയെങ്കിൽ അതിനാൽ XLഇതാണ് എന്റെ Z പ്ലോട്ട് ഇപ്പോൾ ഈ ഡാഷ് ലൈൻ ഈ ലൈൻ XLL ω ആണ് കാരണം ഇത് ഒറിജിനിലുടെ കടന്നുപോകുന്ന ഒരു നേർരേഖയാണ് അതുപോലെ ഈ വശം XC1ω C ഈ വശം ω ആണ് ഈ വശം പ്രതിരോധമാണ് ഈ ഇംപെഡൻസ് അർത്ഥമാക്കുന്നത് Z XL XC എല്ലാം അതിനാൽ XC1ω C ഒരു റെക്ടൻഗുലര് ഹൈപ്പർബോള പോലെ കാണപ്പെടുന്നു അതിനാൽ ഈ ഡാഷ് ലൈൻ പ്ലോട്ട് അതിനാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് എന്റെ XL ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഒരു XC ആണ് XLXC ൽ അത് ഫ്രീക്വൻസി ω0 ആണ് അതിനാൽ ഇംപെഡൻസ് ഇതാണ് എന്റെ XLLω പ്ലോട്ടും ഈ ലൈൻ ഈ XC1ω C പ്ലോട്ടും ഈ ഡാഷ് ലൈൻ റെസിസ്റ്റൻസ് R ആണ് കാരണം XLXC ആ സമയത്ത് ωω0 സമയത്ത് Z R കാരണം R j അങ്ങനെ റെസൊണൻസിൽ XLXC അതിനാൽ ZR ഈ ഡാഷ് ലൈൻ R ആണ് അതിനാൽ ωω0 ൽ ഞാൻ XX 0 എന്ന് പറഞ്ഞു അതിനാൽ ഇംപെഡൻസ് എന്നാൽ ഏറ്റവും കുറഞ്ഞ R ആണ് IVZ ആയതിനാൽ റെസൊണൻസിൽ Z ഏറ്റവും മിനിമം ആയതിനാൽ കറന്റ് മാക്സിമം ആണ് ഇപ്പോൾ ആംഗിൾ ഇപ്പോൾ θ tan 1R അതിനാൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ആവൃത്തി ω0 ന് താഴെയാണെങ്കിൽ അതായത് ω ω0 അങ്ങനെയെങ്കിൽ ω ω0 ആണെങ്കിൽ ഞാൻ ഈ ഡയഗ്രാമിലേക്ക് വരാം എപ്പോൾ ω ω0 ഈ വശം വന്നാൽ ω ω0 അതായത് ഈ പ്രദേശം ω ω0 ആകുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് സൈഡിനേക്കാൾ കൂടുതലാണ് മറുവശത്ത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണ് എന്നാൽ XL കൂടുതലായിരിക്കും അതിനാൽ ഈ വശം എടുക്കുകയാണെങ്കിൽ ω ω0 ഈ വശം ω ω0 അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC XL ഈ വശത്ത് ഈ വശം ω ω0 ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വശമാണ് ആ സമയത്ത് X വിപരീത ദിശയിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും XL XC അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മൂല്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ XL XC എന്ന് കണ്ടെത്തും അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ω ω0 എങ്കിൽ അതായത് L ω ω 1ω C 0 അതായത് 1ω C L ω അതായത് XC L ω അതിനാൽ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ω 1√ LC ലഭിക്കും അതായത് ω ω0 അതിനാൽ ω0 ന് താഴെയുള്ള എല്ലാ ആവൃത്തികൾക്കും ആ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനേക്കാൾ വലുതാണ് ഇത് θ ആണ് ഇത് നെഗറ്റീവ് ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ θ നെഗറ്റീവ് ആണ് അതിനാൽ പ്രതിരോധം കുറവാണെങ്കിൽ ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആവൃത്തി അനുസരിച്ചു ആംഗിൾ കൂടുതൽ വേഗത്തിൽ മാറുന്നു ഈ പ്രതിരോധം വളരെ ചെറുതാണെന്ന് കരുതുക അതിനാൽ വളരെ ചെറിയ പ്രതിരോധത്തിന് ഇത് ω ആണ് ഇത് θ ആണ് Θ vs ω വക്രം ചെറിയ പ്രതിരോധത്തിന് പ്ലോട്ട് വളരെ ഷാർപ് ആണ് ഉയർന്ന പ്രതിരോധത്തിന് ഇതാണ് പ്ലോട്ട് ഇതാണ് എന്റെ ω0 ഈ വശം 90 o ഈ വശം 90 o അതിനാൽ ω 0 ലേക്ക് പോകുമ്പോൾ θ 90 o യിലേക്ക് പോകുന്നു നിങ്ങൾ അതിലേക്ക് വന്നാൽ ω 0 ലേക്ക് പോകുമ്പോൾ ഈ പദം 0 ആയി മാറും എന്നാൽ ω 0 ലേക്ക് പോകുമ്പോൾ ഈ പദം ഇൻഫിനിറ്റി ആയി മാറും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ 3 പദം 90 o യിലേക്ക് പോകുന്നു അതുപോലെ ഇവിടെ ω ω0 അതായത് ω വളരെ വലുതാണ് 1ωC പദം വളരെ ചെറുതാണ് പക്ഷേ θ 90 o യിലേക്ക് പോകുന്നു അതിനാൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡയഗ്രം വരച്ചിരിക്കുന്നത് അതിനാൽ ഇപ്പോൾ Y1Z അത് എന്റെ IY V ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അഡ്മിറ്റാൻസ് അറിയാം നേരത്തെ നമ്മൾ കണ്ടതാണ് അതിനാൽ അഡ്മിറ്റൻസ് vs ω പ്ലോട്ട് ചെയ്താൽ അതിനാൽ ഇത് ω0 ആണ് ഈ പ്ലോട്ട് R ന്റെ ഉയർന്ന മൂല്യത്തിനും ഈ പ്ലോട്ട് R ന്റെ താഴ്ന്ന മൂല്യത്തിനുമുള്ളതാണ് അവസാനമായി R വളരെ കുറവായിരിക്കുമ്പോൾ ഈ ഡാഷ് ലൈൻ അനന്തതയിലേക്ക് പോകുന്നു അതിനാൽ ഇപ്പോൾ ഇത് ω ആണ് ഇത് അഡ്മിറ്റൻസ് വേഴ്സസ് ω പ്ലോട്ടാണ് മറ്റൊന്ന് ഞങ്ങൾ ഈ ഇംപെഡൻസ് വേഴ്സസ് ω പ്ലോട്ട് കണ്ടു ഇത് അഡ്മിറ്റൻസ് ആണ് ഇത് ω0 ആണ് അതിനാൽ ഉയർന്ന R എന്നാൽ അഡ്മിറ്റൻസ് കുറവാണ് കുറഞ്ഞ R എന്നാൽ അഡ്മിറ്റൻസ് ഉയർന്നതാണ് ഇതാണ് പ്ലോട്ട് R വളരെ കുറവാണെങ്കിൽ അത് അനന്തതയിലേക്ക് നീങ്ങുന്നു അതിനാൽ മുകളിലുള്ള പ്ലോട്ട് കറന്റ് വേഴ്സസ് ω പ്ലോട്ടിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പരമാവധി വൈദ്യുതധാര ω0 ൽ സംഭവിക്കുന്നു കാരണം റെസൊണൻസ് ആവൃത്തിയിൽ കുറഞ്ഞ പ്രതിരോധം ഉയർന്ന വൈദ്യുതധാരയിൽ കലാശിക്കുന്നു അതിനാൽ ആ ഡോട്ട് ഇട്ട കർവുകൾ R 0 ലേക്ക് പോകുമ്പോൾ ഉള്ള പരിമിതപ്പെടുത്തുന്ന കേസ് കാണിക്കുന്നു അതായത് ഇത് R 0 ആയി മാറുമ്പോൾ ഇതാണ് ഡോട്ട് ഡാഷ് ലൈൻ അല്ലെങ്കിൽ ഡോട്ട് ലൈൻ അടുത്തത് സമാന്തര റെസൊണൻസണ് അതാണ് ശുദ്ധമായ RLC സർക്യൂട്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് എന്റെ R ആണ് ഇത് എന്റെ jXL ആണ് ഇത് എന്റെ jXC ആണ് ഇത് കപ്പാസിറ്റീവ് ആണ് ഇപ്പോൾ ഇവിടെ ഈ R നമുക്ക് ഇത് ഒരു കണ്ടക്ടൻസ് ആയി പ്രതിനിധീകരിക്കാം അതിനാൽ അത് jBL ഇവിടെ G1R BL1XL BC1XC എന്നിങ്ങനെ മാറും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ 1jX ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും j കൊണ്ട് ഗുണിച്ചാൽ അതിനാൽ jj2 XL j2 1 അതിനാൽ അതായത് jXL നമ്മൾ BL1XL എടുക്കും അതുകൊണ്ടാണ് അത് j BL അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് jB L അതുപോലെ കപ്പാസിറ്റർ jB C ആയി മാറും അത് ആണ് jB C 1XC ന് തുല്യമാണ് അതിനാൽ G1L ഇവിടെ നിങ്ങൾക്കായി ഞാൻ ചെയ്തു 1jXL jXL jBL അതുപോലെ 1 jXCjXC ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും j കൊണ്ട് ഗുണിക്കുക അതിനാൽ അഡ്മിറ്റാൻസ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ YG jB എന്ന് എഴുതുന്നു അതിനാൽ BB C B L ഇത് എന്റെ B C യാണ് ഇത് സീരീസ് ഒന്നിന് വിപരീതമായി എന്റെ B L ആണ് എന്നാൽ അഡ്മിറ്റാൻസ് പരിഗണിച്ച് ഞങ്ങൾ ഇത് ഇതുപോലെയാക്കി അതിനാൽ ഇതാണ് എന്റെ B C ഇത് എന്റെ B L അതിനാൽ ഇത് എന്റെ B C ആണ് ഇത് എന്റെ BL ആണ് ഇപ്പോൾ B0 ആയിരിക്കുമ്പോൾ സർക്യൂട്ട് റെസൊണൻസിലാണ് ഈ ഭാഗം 0 ആയിരിക്കുമ്പോൾ സർക്യൂട്ട് റെസൊണൻസിലായിരിക്കും അതിനാൽ ω C1L ω അതിനാൽ ω1√ L C അത് ω0 ആയിരിക്കും സീരീസ് സർക്യൂട്ട് പോലെ തന്നെ ശ്രേണിയിലെ പോലെ RL C സർക്യൂട്ട് അറെസൊണൻസ് ഫ്രീക്യുഎൻസി f 012 pi √ L C ഹെർട്സ് ആണ് അഡ്മിറ്റൻസ് vs ω സീരീസ് അഡ്മിറ്റൻസ് സർക്യൂട്ടിനുള്ള ഇംപെഡൻസ് vs ω ക്ക് തുല്യമാണ് ഇപ്പോൾ പാര്ലെലിനു ഞങ്ങൾ അഡ്മിറ്റൻസ് vs ω പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് എന്റെ കോൺസ്റ്റന്റ് G ലൈൻ ആണ് കാരണം B CB L പിന്നെ B C ω ഇത് എന്റെ B Cω ഇതാണ് ഡാഷ് ലൈൻ ഇതാണ് B Lω ഇത് ഒരു റെക്ടങ്ലർ ഹൈപ്പർബോളയാണ് 1 l ω ഇത് ω0 ആണ് അതായത് റെസൊണൻസ് ഫ്രീക്യുഎൻസി അതിനാൽ ഈ ഘട്ടത്തിൽ B CB L ഈ വശം ω ω0 ആകുമ്പോൾ B L B C യേക്കാൾ വലുതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ω ω0 ഈ വശം ഇപ്പോൾ ഈ വശത്തേക്ക് വരും ഈ ഭാഗത്തേക്ക് വന്നാൽ അത് നേരെ എതിർവശത്ത് B C B L ആയിരിക്കും അതിനാൽ ωω0 B CB L YG അതിനാൽ റെസൊണൻസിൽ റെസൊണൻസ് പാരലൽ സർക്യൂട്ടും അഡ്മിറ്റൻസും ഏറ്റവും മിനിമം ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ IYV അതിനാൽ Y എന്നത് അഡ്മിറ്റൻസ് ആയതിനാൽ സമാന്തര സർക്യൂട്ടിനുള്ള കറന്റിനു ഏറ്റവും കുറഞ്ഞ മൂല്യ൦ ഉണ്ടാവും അതിനാൽ ഇപ്പോൾ നിങ്ങൾ പാരലൽ സർക്യൂട്ടിന് എതിരായി ഇംപെഡൻസ് ω പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാൽ ഇത് ω0 ലാണ് ഇത് താഴ്ന്ന R ലും ഇത് ഉയർന്ന R ലും ആണ് സീരീസ് സമാന്തരവും കോംപ്ലെമെന്റ് വിളിക്കുന്നത് പോലെയാണ് ഇത് എന്ന് അറിയുക ഇപ്പോൾ അഡ്മിറ്റൻസിന്റെ ആംഗിൾ നൽകിയിരിക്കുന്നത് θ ആണ് ഇത് θ Y tan 1G ഇപ്പോൾ നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മുമ്പത്തേതിന് സമാനമാണ് ഇതാണ് ആംഗിൾ ഓഫ് ഇംപെഡൻസ് ആണ് അതിനാൽ പ്ലോട്ട് ഇതുപോലെയാണെങ്കിൽ അത് ω C 1L ω 0 ആയിരിക്കും അതിനാൽ ω 0 ക്ക് ഇതാണ് പ്ലോട്ട് ഇപ്പോൾ ω ω0 എങ്കിൽ എന്റെ B L B C ആണ് അതിനാൽ θ Y നെഗറ്റീവ് ആണ് അതിനാൽ നിങ്ങൾ ഇവിടെ വന്നാൽ അത് G j ആയിരിക്കും ഇത് എന്റെ B C B L അതിനാൽ ഈ അവസ്ഥയിൽ നിന്ന് BC BL അല്ലെങ്കിൽ BL അതനുസരിച്ച് നെഗറ്റീവ് പോസിറ്റീവ് ആംഗിൾ വരുമെന്ന് ഞാൻ കാണുന്നു അതിനാൽ അതേ കാര്യം ഇവിടെ വിശദീകരിക്കുന്നു ω ω0 B L B C θ Y നെഗറ്റീവ് ആകു൦ ഒപ്പം ഇംപഡൻസ് ആംഗിളും അഡ്മിറ്റൻസ് ആംഗിൾ നെഗറ്റീവ് ആയാൽ ഇംപെഡൻസിന്റെ കോൺ θ പോസിറ്റീവ് ആയി മാറും അതുപോലെ ω 0 യിലേക്ക് പോകുമ്പോൾ θ Y അഡ്മിറ്റാൻസ് നെഗറ്റീവ് ആണ് അതായത് അഡ്മിറ്റൻസ് കോൺ θ പോസിറ്റീവ് ആണ് കാരണം ഇത് θY ആണ് അതുപോലെ ω 0 കോണിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റൻസ് കോൺ 90o അതായത് ഇംപെഡൻസിന്റെ കോൺ 90o ആണ് അങ്ങനെ അതായത് എപ്പോൾ ω ω0 B C B L അതായത് θ Y എന്നത് പോസിറ്റീവ് ആണ് ആംഗിൾ ഓഫ് ഇംപെഡൻസ് θ നെഗറ്റീവ് ആയിരിക്കും ω ω0 ആ സമയത്ത് നിങ്ങൾ θ Y 90 o എന്ന് കാണും അതായത് ആംഗിൾ ഓഫ് ഇംപെഡൻസ് 90o ആയിരിക്കും എപ്പോൾ ω ω0 അതായത് ω ω0 ആകുമ്പോൾ ഈ ഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭാഗം നിസ്സാരമാണ് അതായത് ആ സാഹചര്യത്തിൽ അഡ്മിറ്റാൻസ് ആംഗിൾ പോസിറ്റീവ് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ അഡ്മിറ്റാൻസ് ആംഗിൾ പോസിറ്റീവ് ആണ് അത് 90 o ആണ് അതിനാൽ θ 90 o അങ്ങനെ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു